ഞങ്ങൾ പരിഗണിച്ച വ്യത്യസ്ത തരംതിരിക്കൽ അൽഗോരിതം നോക്കാം അതിനാൽ നാം മറക്കരുതാത്ത ഒരു പ്രധാന മാനദണ്ഡം തരംതിരിക്കൽ പലപ്പോഴും ഘട്ടങ്ങളിലാണ് അതിനാൽ അസ്വിൻ ഭാരതി ചന്ദർ ദീപ എന്നിവരുടെ പേരുകളുടെ ഒരു പട്ടിക ഞങ്ങളുടെ പക്കലുണ്ടാകാം അതിനാൽ ഞങ്ങൾ ഇത് ക്രമത്തിൽ അടുക്കി അവർക്ക് ഒരു പരീക്ഷയിൽ കുറച്ച് മാർക്ക് ലഭിച്ചിരിക്കാം അതിനാൽ അവർക്ക് 60 43 60 95 എന്നിവ ലഭിച്ചേക്കാം ഇപ്പോൾ ഇത് മാർക്ക് പ്രകാരം അടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ തീർച്ചയായും ഇത് അടയാളപ്പെടുത്തിക്കൊണ്ട് ഭാരതിയുടെയും അശ്വിന്റെയും സ്ഥാനം കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് പക്ഷേ അശ്വിനിയുടെയും ചന്ദറിന്റെയും സ്ഥാനം കൈമാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അക്ഷരമാല ക്രമങ്ങളുടെ ക്രമീകരണം ശല്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അവസാന ഉത്തരം ഭാരതിക്ക് 43 അശ്വിന് 60 ചന്ദറിന് 60 ദീപയ്ക്ക് ഉണ്ട് 95 പക്ഷേ നിങ്ങൾ ചന്ദറും അശ്വും തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് പക്ഷേ അഭികാമ്യമല്ല അതിനാൽ ഞങ്ങൾക്ക് അക്ഷരമാലാക്രമത്തിൽ വിദ്യാർത്ഥികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മാർക്ക് അനുസരിച്ച് അടുക്കുകയാണെങ്കിൽ തുല്യ മാർക്ക് ഉള്ളവരെ ഇപ്പോഴും അക്ഷരമാലാക്രമത്തിൽ അടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ നമുക്ക് ഒരു തരം നിരകളുള്ള ഒരു സ്പ്രെഡ്ഷീറ്റിൽ അതിനാൽ ഞങ്ങൾ ഈ നിര പ്രകാരം അടുക്കുന്നുവെന്ന് കരുതുക തുടർന്ന് ഞങ്ങൾ ഈ നിര പ്രകാരം അടുക്കുന്നു രണ്ടാമത്തെ സോർട്ടിംഗ് ആദ്യ സോർട്ടിംഗിന്റെ ക്രമത്തെ തടസ്സപ്പെടുത്തരുത് അതിനാൽ ഇതിനെ സ്ഥിരതയുള്ള തരംതിരിക്കൽ എന്ന് വിളിക്കുന്നു പലപ്പോഴും നിങ്ങൾ ഒരു ആട്രിബ്യൂട്ടിൽ ഒരു തരംതിരിക്കൽ നടത്തുമ്പോൾ എന്നാൽ മറ്റ് ആട്രിബ്യൂട്ടുകൾ ഉണ്ടാകാം അതിനാൽ ഡാറ്റ ഇനം സാധാരണയായി ഒരു അദ്വിതീയ മൂല്യങ്ങളല്ല അത് ഒരു സംഖ്യ മാത്രമല്ല ഇത് ഒരു അതിനാൽ നിങ്ങൾ പേരുകൾ എടുക്കുന്നു അടയാളങ്ങളും മറ്റ് പല വിലാസങ്ങളും ഫോൺ നമ്പറായിരിക്കാം മാത്രമല്ല നിങ്ങൾ വ്യത്യാസത്തിൽ അടുക്കുകയും ചെയ്യാം അതിനാൽ ഞങ്ങൾക്ക് വ്യത്യസ്ത നിരകളുള്ള ഒരു സ്പ്രെഡ്ഷീറ്റിനെക്കുറിച്ച് ചിന്തിക്കുക അതിനാൽ തുടർച്ചയായുള്ള ഓരോ അടുക്കും മുമ്പത്തെ തരംതിരിക്കലിനെ തടസ്സപ്പെടുത്തരുത് അതിനാൽ ഇതിനെ സ്ഥിരതയുള്ള തരംതിരിക്കൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് വ്യക്തമായും അഭികാമ്യമാണ് കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ഇത് ചെയ്യുന്നതിനാൽ അടുത്ത റൌണ്ട് തരംതിരിക്കൽ ആദ്യ റൌണ്ട് സോർട്ടിംഗിനെ ശല്യപ്പെടുത്തിയാൽ ഞങ്ങൾ വളരെ അസന്തുഷ്ടരാകും അതിനാൽ ഏത് അൽഗോരിതം സ്ഥിരതയുള്ളതാണ് അതിനാൽ കാണിച്ചിരിക്കുന്നതുപോലെ ദ്രുതഗതിയിലുള്ള അടുക്കൽ ഒരു സുസ്ഥിരമായ പ്രവർത്തനമല്ല അതിനാൽ ഞങ്ങൾ അത് കുറച്ചുകൂടെ എടുത്തുവെന്ന് ഓർക്കുക കുറഞ്ഞത് ഞങ്ങളുടെ നടപ്പാക്കലിൽ ഞങ്ങൾ ചെയ്തത് ഈ താഴ്ന്ന സെറ്റും അതിനുശേഷം മുകളിലെ സെറ്റും വലതുവശത്താണ് ഞങ്ങൾ നിർമ്മിച്ചത് അതിനാൽ ഇത് ശരിയാണ് ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ചിത്രം ഒടുവിൽ ഇത് നിർണായക പോയിന്റാണ് ഞങ്ങൾ ഈ സ്വാപ്പ് ചെയ്യുന്നു അതിനാൽ ഇവിടെ നമുക്ക് ഉദാഹരണമായി ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കരുതുക ഈ പോയിന്റ് 60 മാർക്കോടെ അശ്വിനും 60 മാർക്കോടെ ചന്ദറും അതിനാൽ താഴത്തെ സെറ്റ് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥ ഇൻപുട്ടിലെന്നപോലെ അവ ശരിയായ ക്രമത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മാറ്റിയാൽ പിവറ്റ് ഇവിടെയെത്തി 60 മാർക്കോടെ ചന്ദർ ഇവിടെ പോയി അതിനാൽ ഈ സ്വാപ്പിംഗ് പ്രവർത്തനം അടിസ്ഥാനപരമായി എ സി എന്നിവയുടെ ക്രമം ഈ സ്ട്രൈക്ക് ഉപയോഗിച്ച് ഇൻപുട്ടിലുണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു അതിനാൽ ഇനി മുതൽ ഈ ഓർഡർ കുതിച്ചുയരും അതിനാൽ പാർട്ടീഷനിംഗിനിടെയുള്ള ഈ സ്വാപ്പ് പ്രവർത്തനം യഥാർത്ഥ ക്രമത്തെ തടസ്സപ്പെടുത്തുന്നു ഇതും സംഭവിക്കുന്നു തിരഞ്ഞെടുക്കൽ തരം പോലുള്ള കാര്യങ്ങളിൽ കാരണം സെലക്ഷൻ സോർട്ടിംഗിൽ നമ്മൾ എവിടെയെങ്കിലും ഈ വിദൂര കാര്യങ്ങൾ ചെയ്യുന്നു അതിനാൽ സെലക്ഷൻ സോർട്ടിൽ ഓർക്കുക ഞങ്ങൾ ഏറ്റവും കുറഞ്ഞത് തിരഞ്ഞെടുക്കുകയും പിന്നീട് അത് തുടക്കത്തിലേക്ക് കൈമാറുകയും ചെയ്യുന്നു ഇപ്പോൾ തുടക്കത്തിലെ മൂലകത്തിന് സമാനമായ അക്ഷരമാല ക്രമമുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് ചെറുതാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു രണ്ടാമത്തേതിൽ ഇപ്പോൾ അത് അറേയിലെ പിന്നീടുള്ള പോയിന്റിലേക്ക് നീങ്ങുന്നു ക്രമം അസ്വസ്ഥമാവുന്നു അതിനാൽ ഏത് തരത്തിലുള്ള ദീർഘദൂര കൈമാറ്റവും സ്ഥിരതയ്ക്ക് വളരെ അപകടകരമാണ് ലയനം അടുക്കുന്നതിനെക്കുറിച്ച് ശരി ലയിപ്പിക്കൽ അടുക്കൽ സാധാരണയായി ഞങ്ങൾ സ്ഥിരമായി നൽകും വലതുവശത്തുള്ള എന്തെങ്കിലും യഥാർത്ഥ അറേയിലെ എന്തിന്റെയെങ്കിലും ഇടത്തേക്ക് പോകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമില്ല ഈ ക്രമത്തിൽ തുടരേണ്ട രണ്ട് ഘടകങ്ങൾ നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയും ഉണ്ടെങ്കിൽ അവ കൈമാറ്റം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് അവ കൈമാറ്റം ചെയ്യുന്നത് അവ തുല്യമാണെങ്കിൽ മാത്രമേ അവ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ സ്ഥിരത നശിപ്പിക്കപ്പെടുന്ന തുല്യ ഘടകങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരേയൊരു സന്ദർഭമാണിത് അതിനാൽ മുമ്പത്തെ അറേയിൽ നിന്ന് ഇടത് വശത്തുള്ള ഒരു മൂലകത്തിലേക്ക് വലതുവശത്തുള്ള ഒരു ഘടകവും വരുന്നില്ലെന്നും നിങ്ങൾ ലയിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ A i എന്നതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ B j ന് തുല്യമാണ് ഞങ്ങൾ A യിൽ നിന്നും മാത്രം തിരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങൾ എഴുതുന്നതിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലുത് ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ B യിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നിട്ട് അവ തുല്യമാകുമ്പോൾ ഞങ്ങൾ ആദ്യം B യിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എയിൽ നിന്ന് അത് അസ്ഥിരത സൃഷ്ടിക്കും അതിനാൽ ഞങ്ങളുടെ ലയന പ്രവർത്തനത്തിൽ നിർണായകമായത് A i B യിൽ കുറവോ തുല്യമോ ആയിരിക്കുമ്പോൾ B യേക്കാൾ മുൻഗണനയുള്ള A ൽ നിന്ന് മൂലകം തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥ ക്രമത്തിനും ഇന്ദ്രിയ ലയനത്തിനും അനുസരിച്ച് തുല്യ മൂലകങ്ങളുടെ ഇടത് വലത് ക്രമം സംരക്ഷിക്കുന്നു സ്ഥിരതയോടെ ചെയ്തു അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം തിരുകൽ തരം തിരിക്കുകയാണെങ്കിൽ തിരുകൽ തരംതിരിക്കലും സുസ്ഥിരമാണെന്നും ദ്രുതഗതിയിലുള്ള അടുക്കൽ സുസ്ഥിരമാക്കാൻ കഴിയില്ലെന്നും ഇത് അർത്ഥമാക്കുന്നില്ല ഞങ്ങൾ അത് നടപ്പിലാക്കിയ രീതിയിലാണ് ദ്രുത അടുക്കൽ സ്ഥിരതയില്ല ഞങ്ങൾ കണ്ടതുമായി ബന്ധപ്പെട്ട മറ്റൊരു മാനദണ്ഡം രണ്ട് ഘടകങ്ങളെ താരതമ്യം ചെയ്യാനും കൈമാറ്റം ചെയ്യാനും ആവശ്യമായ ഘട്ടങ്ങളുടെ എണ്ണത്തിൽ മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചേക്കാം ഉദാഹരണത്തിന് അറേയുടെ അവസാന സെഗ്മെന്റുകളിലുടനീളം നിങ്ങളെ കൊണ്ടുപോകുന്ന ചലനങ്ങൾക്ക് പിഴ ചുമത്താൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അതിനാൽ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം പരസ്പരം കാര്യങ്ങൾ കൈമാറുന്നതാണ് നല്ലത് അതിനാൽ ഞങ്ങൾ നോക്കാത്ത ബബിൾ സോർട്ട് പോലുള്ള ഒന്ന് അടുത്തുള്ള ഘടകങ്ങൾ മാത്രം കൈമാറ്റം ചെയ്യുന്ന സെലക്ഷൻ സോർട്ട് പോലെയുള്ളതിനേക്കാൾ മികച്ചതായിരിക്കും അത് അറേയിലേക്ക് വലിയ രീതിയിൽ കൈമാറ്റം ചെയ്യുന്നു ഇപ്പോൾ ഡാറ്റയ്ക്ക് ചിലവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അറേ അടുക്കുകയാണെന്ന് കരുതുക പക്ഷേ ഇത് സംഭവിക്കാം പക്ഷേ ഈ അറേ വ്യത്യസ്തമാണ് ഇത് വളരെ വലുതാണ് അത് ഒരൊറ്റ സെർവറിൽ സംഭരിക്കില്ല ഓരോ തവണയും നിങ്ങൾ ഒരു സെർവറിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്വാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു അധിക ചിലവ് നിങ്ങൾക്ക് നൽകാം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കാണാത്ത വ്യത്യസ്ത മാനദണ്ഡങ്ങൾ തിരശ്ശീലയ്ക്ക് പിന്നിലുണ്ടാകാം അതിനാൽ നിങ്ങൾ എന്തെങ്കിലും കൈകൊണ്ട് അടുക്കുമ്പോൾ സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു കൂട്ടം കനത്ത കാർട്ടൂണുകൾ അടുക്കുകയാണെന്ന് കരുതുക അപ്പോൾ ഒരു വലിയ ദൂരത്തേക്ക് നീങ്ങുന്നതിനേക്കാൾ ഭാരം കൂടിയ കാർട്ടൂൺ നീക്കുന്നത് കൂടുതൽ ചെലവേറിയതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും അതിനാൽ നിങ്ങളുടെ തരംതിരിക്കൽ ചെലവ് നിയന്ത്രിക്കുന്ന മറ്റ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം അത് ഞങ്ങൾ ഒട്ടും പരിഗണിച്ചിട്ടില്ലാത്തതും ആളുകൾ സാഹിത്യത്തിൽ ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നതുമാണ് അതിനാൽ ഏത് തരം മികച്ചതാണെന്ന് പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അതിനാൽ നിർഭാഗ്യവശാൽ ഒരൊറ്റ സോർട്ടിംഗ് അൽഗോരിതം എല്ലായ്പ്പോഴും മികച്ചതാണെന്ന് ഉറപ്പുനൽകുന്നില്ല ഇത് ശരിക്കും ആശ്രയിച്ചിരിക്കുന്നു ആഴം ചലനം മറ്റ് മാനദണ്ഡങ്ങൾ എന്നിവ അടുക്കുന്നതുപോലെ ഞങ്ങൾ പറഞ്ഞു ചില സോർട്ടിംഗ് അൽഗോരിതം ചില സന്ദർഭങ്ങളിൽ നന്നായി പ്രവർത്തിക്കാം ചിലത് മറ്റ് സന്ദർഭങ്ങളിൽ മിക്കതിലും ലളിതമായ അറേകൾക്കുള്ള മെമ്മറി അടിസ്ഥാനമാക്കിയുള്ള സന്ദർഭം ദ്രുത അടുക്കൽ മികച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞതുപോലെ ദ്രുതഗതിയിലുള്ള അടുക്കൽ സാധാരണയായി അൽഗോരിതം സോർട്ടിംഗിനായി നിർമ്മിച്ച ചോയിസിന്റെ സ്ഥിരസ്ഥിതി നടപ്പാക്കലാണ് പിവറ്റും മറ്റ് പല ഘടകങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ ഞങ്ങൾ ബുദ്ധിമാനായ എന്തെങ്കിലും ചെയ്യുന്നു മറുവശത്ത് ഞങ്ങൾക്ക് ധാരാളം ഡാറ്റ നീക്കേണ്ടിവരുമ്പോൾ നിങ്ങൾ ഒരു ഡാറ്റാബേസ് അടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും സംഭരിക്കാനാവില്ല നമുക്ക് മെമ്മറിയിൽ മുഴുവൻ കാര്യങ്ങളും അടുക്കാൻ കഴിയില്ല അതിനാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ലയനം അടുക്കുന്നതിൽ ഒരു വ്യതിയാനം ഉപയോഗിക്കുന്നു അതിനെ ബാഹ്യ ലയനം അടുക്കൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ശരിക്കും സന്ദർഭങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ചിലപ്പോൾ ഞങ്ങൾ ഒന്ന് ഉപയോഗിക്കും ചിലപ്പോൾ മറ്റൊന്ന് ഉപയോഗിക്കും അവ ഒരു മികച്ച അൽഗോരിതം ആണെങ്കിൽ മറ്റ് അൽഗോരിതം പഠിക്കേണ്ട ആവശ്യമില്ല അതിനാൽ പഠിച്ച ഈ അൽഗോരിതം പലതും കാണിക്കുന്നു കാര്യങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒന്നോ അല്ലെങ്കിൽ മറ്റൊരു ആശയം ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് കാണിക്കുന്നു ലയനം അടുക്കൽ ഒരു ഓർഡറായി ഞങ്ങൾ കണ്ടു n ലോഗ് എൻ അൽഗോരിതം മറ്റ് n ലോഗ് എൻ അൽഗോരിതം ഉണ്ട് കൂമ്പാര അടുക്കലിനായി ഈ കോഴ്സിൽ പിന്നീട് ഒന്ന് കാണും ഓർമിക്കേണ്ട പ്രധാന കാര്യം ശരാശരി കേസിൽ ദ്രുതഗതിയിലുള്ള അടുക്കൽ n ലോഗ് n പോലെയല്ലാത്ത നിഷ്കളങ്കമായ n ചതുര അൽഗോരിതം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ചെറിയ ഡാറ്റയ്ക്ക് മാത്രമേ പ്രവർത്തിക്കൂ എന്നിരുന്നാലും ചിലപ്പോൾ ആ ചെറിയ ഡാറ്റ നിഷ്കളങ്കമായ അൽഗോരിത്തിന്റെ ലാളിത്യം സങ്കീർണ്ണമായ മൂല്യത്തിന്റെ സങ്കീർണ്ണതയെ മറികടക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഹൈബ്രിഡ് അൽഗോരിതം പോലും ഉണ്ടായിരിക്കാം നിങ്ങൾ വിഭജനം ഉപയോഗിക്കുകയും n വലുതായിടത്ത് ജയിക്കുകയും തുടർന്ന് n ചെറുതായിത്തീരുകയും പിന്നീട് നിങ്ങൾ സ്വിച്ചുചെയ്യുന്നത് തരം തിരിക്കലായിരിക്കാം അതിനാൽ ആളുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തന്ത്രങ്ങൾ ഉണ്ട് മാത്രമല്ല ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണാത്മകമായി നിരയും അതിനാൽ ഒരു അൽഗോരിതം മികച്ചതാണെന്ന് പറയാൻ പര്യാപ്തമല്ല എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കാത്തത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം അതുവഴി നിങ്ങളുടെ ആവശ്യകതകൾക്ക് അനുസൃതമായി നിങ്ങളുടെ സോർട്ടിംഗ് നടപടിക്രമങ്ങൾ ക്രമീകരിക്കാൻ കഴിയും